ഞാൻ യഥാർത്ഥ സർക്യൂട്ടിലേക്ക് തിരികെ വരട്ടെ ഈ V c യുടെ അടിസ്ഥാനത്തിൽ ഇതിനെ നിയന്ത്രിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യം എന്തായിരുന്നു മറ്റേതെങ്കിലും വേരിയബിളിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഡിഫറൻഷ്യൽ സമവാക്യം തിരികെ നൽകാമായിരുന്നു കറന്റ് I c അല്ലെങ്കിൽ വോൾട്ടേജ് V R എന്നിങ്ങനെ പറയാം ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും ദയവായി I c അല്ലെങ്കിൽ V R ന്റെ വേരിയബിളുകൾ ഉപയോഗിച്ച് ഡിഫറൻഷ്യൽ സമവാക്യം നേടുകയും ഞാൻ പ്രവർത്തിക്കാൻ പോകുന്ന കാര്യവുമായി താരതമ്യം ചെയ്യുക ഈ V c യുടെ ഡിഫറൻഷ്യൽ സമവാക്യം എന്തായിരുന്നു അതിനാൽ ഇതാണ് സർക്യൂട്ടിനെ നിയന്ത്രിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യം തുടർന്ന് ഇത് കപ്പാസിറ്റർ വോൾട്ടുകളെ V c യുടെ അടിസ്ഥാനത്തിൽ മടക്കി നല്കന്നു ഇപ്പോൾ റസിസ്റ്ററിലുള്ള വോൾട്ടേജ് V R അല്ലെങ്കിൽ കപ്പാസിറ്റർ വഴിയുള്ള കറണ്ട് Ic പോലെയുള്ള മറ്റ് സാധ്യമായ വേരിയബിളുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സർക്യൂട്ടിനുള്ള ഡിഫറൻഷ്യൽ സമവാക്യം ശരിയാക്കാം അതിനാൽ V R എന്നത് മറ്റൊന്നുമല്ല Vs മൈനസ് V c ആണ് അതിനാൽ ഇത് കിർഷോഫ് വോൾട്ടേജ് നിയമത്തിൽ നിന്നാണ് വരുന്നത് അതിനാൽ ഇതിൽ നിന്ന് V c എന്നത് V s മൈനസ് V R ആണെന്ന് നമ്മൾ കാണുന്നു അതിനാൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് രണ്ട് വശങ്ങളെയും വേർതിരിക്കുന്നതാണ് V c Vs ന്റെ ഡെറിവേറ്റീവ് VR ന്റെ ഡെറിവേറ്റീവിനെ മൈനസ് ചെയ്ത് ഈ രണ്ട് ബന്ധങ്ങളെ മാറ്റിസ്ഥാപിക്കുന്നു അതിലേക്ക് നമുക്ക് ഇനിപ്പറയുന്ന RC × dv R dt V s VR V s ലഭിക്കും അതിനാൽ നിങ്ങൾ നിബന്ധനകൾ പുനഃക്രമീകരിക്കുകയാണെങ്കിൽ ഇത് R C×d v R d t V R R C × Vs ന്റെ സമയ ഡെറിവേറ്റീവ് ആണെന്ന് നിങ്ങൾ കാണും Vs ഒരു കോൺസ്റ്റന്റ് ആണെന്ന് അറിയാമെങ്കിൽ നമുക്ക് R C × d v R d t V R 0 ലഭിക്കും അതിനാൽ V s ഒരു കോൺസ്റ്റന്റ് ആണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഇതാണ് അതിനാൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം അതിന്റെ ഇടത് വശം അതേ രൂപത്തിലാണ് അതിനാൽ ആദ്യ ഡെറിവേറ്റീവിന്റെ കോഎഫിഷ്യന്റ് R c ഉം V R ന്റെ കോഫിഷ്യന്റ് 1 ഉം ആണ് നമുക്കും ഇപ്പോൾ I c യുടെ അടിസ്ഥാനത്തിൽ ശ്രമിക്കാം അത് സമാനമായിരിക്കും I c എന്നത് മറ്റൊന്നുമല്ല V s V c R കൂടാതെ ഞാൻ V c എന്ന് എഴുതിയാൽ അത് V s I c × R അങ്ങനെ V c യുടെ ടൈം ഡെറിവേറ്റീവ് I c യുടെ V s R ടൈം ഡെറിവേറ്റീവ് ആണ് ഞാൻ ഈ രണ്ടും അവിടെ പകരം വെച്ചാൽ എനിക്ക് എന്ത് ലഭിക്കും RC × dvs dt R d I c dt V c അതായത് V s I c × R വലതുവശത്ത് ഞങ്ങൾക്ക് V s ഉണ്ട് നിങ്ങൾ ഇത് പുനഃക്രമീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ RC d I c dt I c C × d v s dt എന്നിവയിൽ അവസാനിക്കും V s ഒരു കോൺസ്റ്റന്റ് ആണെന്ന് അറിയാമെങ്കിൽ ഞങ്ങൾക്ക് RC d v s dt I c 0 ഉണ്ട് ഇടത് വശത്ത് രണ്ട് വേരിയബിളുകളും വലതുവശത്ത് ഉറവിടവും ഉപയോഗിച്ച് ഞാൻ മൂന്നും എഴുതിയിട്ടുണ്ട് അതിനാൽ ഈ മൂന്ന് ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ഇടത് വശം തികച്ചും സമാനമാണ് ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ഹോമോജിനെസ് ഭാഗങ്ങൾ ഒന്നുതന്നെയാണ് ഇത് ഏതൊരു സർക്യൂട്ടിന്റെയും ജനറൽ പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ഞങ്ങൾ കപ്പാസിറ്റർ വോൾട്ടേജിനുള്ള പരിഹാരം V s V c l 0 V s എക്സ്പോണൻഷ്യൽ t R C ആയി കണ്ടെത്തി ഇപ്പോൾ നിങ്ങൾ ഈ ഇടത് വശം നോക്കിയാൽ അങ്ങനെ തന്നെ ആയിരിക്കും അതായത് എല്ലാറ്റിന്റെയും ഹോമോജിനെസ് ഭാഗങ്ങൾ ഒന്നുതന്നെയാണ് അതിനാൽ അവയെല്ലാം V c × എക്സ്പോണൻഷ്യൽ t R C ആയിരിക്കുമോ എന്നത് V c യുടെ ഹോമോജിനെസ് സൊല്യൂഷൻ ആണ് അതുപോലെ I c യും ഇതേ രീതിയിൽ ആയിരിക്കും ഇവ നാച്ചുറൽ റെസ്പോണ്സ്സ് അല്ലെങ്കിൽ ഹോമോജിനെസ് സൊല്യൂഷൻ ഇപ്പോൾ ഇത് ഏതൊരു സർക്യൂട്ടിന്റെയും ഒരു ജനറൽ പ്രോപ്പർട്ടിയാണ് ഇത് ആദ്യ ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യവുമായി ഒരു ബന്ധവുമില്ല ഉയർന്ന ഓർഡറുകൾക്കായി നിങ്ങൾക്ക് എക്സ്പോണൻഷ്യലുകളുടെ സംയോജനം ലഭിക്കും അതിനാൽ ഉയർന്ന ഓർഡർ സമവാക്യങ്ങൾക്കായി ഞങ്ങൾ ഇവിടെ ഒരു ടൈം കോൺസ്റ്റന്റ് ഉള്ളതുപോലെ നിങ്ങൾക്ക് മൾട്ടിപൽ ടൈം കോൺസ്റ്റന്റുകളും മൾട്ടിപൽ എക്സ്പിരിൻഷനുകളും ഉണ്ടാകും അതിനാൽ സർക്യൂട്ടിലെ ഏതെങ്കിലും വേരിയബിളിന്റെ നാച്ചുറൽ റെസ്പോണ്സ്സ് അത് കറന്റായാലും വോൾട്ടേജായാലും കൃത്യമായി തുല്യമായിരിക്കും അതിനാൽ ഞാൻ നിങ്ങളോട് ഈ ലൂപ്പിലെ കറന്റാണോ അല്ലെങ്കിൽ റസിസ്റ്ററിൽ ഉള്ള വോൾട്ടേജാണോ ആവശ്യപ്പെട്ടിരുന്നതെങ്കിൽ നിങ്ങൾ സർക്യൂട്ടിനായി വീണ്ടും പരിഹരിക്കേണ്ടതില്ല പരിഹാരം കൃത്യമായി അതേ രൂപമായിരിക്കും ഇപ്പോൾ പീസ് തിരിച്ചുള്ള കോൺസ്റ്റന്റ് ഇൻപുട്ടുകൾക്ക് എല്ലാത്തിനും V c എന്ന അതേ ഫോം ഉണ്ടായിരിക്കും ഈ V c 0 V s വിശദീകരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം കൂടാതെ I c അടിസ്ഥാനപരമായി ഞാൻ I c ആയി എഴുതുന്ന ഫൈനൽ മൂല്യമായിരിക്കും ∞ I c I c ∞ ഇതാണ് പൊതുരൂപം ടൈം കോൺസ്റ്റന്റ് R C ആണോ എന്നതിന്റെ ഇനിഷ്യൽ മൈനസ് ഫൈനൽ മൂല്യം അവസാനമായി V R എന്നത് ഇൻഫിനിറ്റിയിലെ V R ആയിരിക്കും അത് ഫൈനൽ വാല്യൂ ഇനിഷ്യൽ വാല്യൂസ്ഉം ഫൈനൽ വാല്യൂസ്ഉം തമ്മിലുള്ള വ്യത്യാസം × എക്സ്പീരിയൻഷ്യൽ t R C അതേ ടൈം പ്രോസസ്സർ അതിനാൽ ഏത് സങ്കീർണ്ണമായ സർക്യൂട്ടിലും സർക്യൂട്ടിലെ ഏത് വേരിയബിളിനും സൊല്യൂഷൻ ഉണ്ടാക്കാൻ ഇതിന് കഴിയണം